ലയനം അടുക്കുന്നതുപോലെ ഒരു അധിക അറേയുടെ ആവശ്യകതയെ മറികടക്കുന്ന ഒരു വിഭജനം ജയിക്കുന്ന അൽഗോരിതം ക്വിക്സോർട്ട് ഞങ്ങൾ കണ്ടു അതിനാൽ നമുക്ക് ക്വിക്സോർട്ടിന്റെ ഒരു വിശകലനം നടത്താം അതിനാൽ ക്വിക്ക്സോർട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഓർക്കുക നിങ്ങൾ ഒരു പിവറ്റ് ഘടകം എടുക്കുന്നു സാധാരണയായി ഒരു അറേയുടെ ഈ ആദ്യ ഘടകം പറയുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇത് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു അതായത് നിങ്ങൾക്ക് p യുടെ കുറവോ തുല്യമോ ആയ ഒരു താഴ്ന്ന ഭാഗം ഉണ്ട് മുകളിലെ ഭാഗം ഉണ്ടായിരിക്കാം ഇത് p നേക്കാൾ വലുതാണ് നിങ്ങൾ ഈ പിവറ്റിനെ ഇടയ്ക്ക് നീക്കുകയും തുടർന്ന് നിങ്ങൾ ഈ താഴത്തെ ഭാഗവും മുകൾഭാഗവും വെവ്വേറെ തരംതിരിക്കുകയും പിന്നീട് നിങ്ങൾ ഒരു സംയോജിത ഘട്ടവും ചെയ്യേണ്ടതില്ല കാരണം ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം ശരിയായ സ്ഥാനത്താണ് അതിനാൽ ഞങ്ങൾ ആദ്യം നിരീക്ഷിച്ചത് ഈ വിഭജനം യഥാർത്ഥത്തിൽ വളരെ കാര്യക്ഷമമാണ് എന്നതാണ് മുഴുവൻ അറേയുടെയും ഒരു സ്കാനിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ഏത് സമയക്രമത്തിലും n സമയക്രമത്തിൽ നമുക്ക് വിഭജിക്കാം അതിനാൽ ആവർത്തന പ്രശ്നങ്ങൾ എത്ര വലുതാണെന്നതാണ് ചോദ്യം അതിനാൽ പിവറ്റ് ഒരു മീഡിയൻ ആണെങ്കിൽ മീഡിയൻ നിർവചനം അനുസരിച്ച് ഇവയുടെ വലുപ്പം n 2 ആണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം അറേയെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്ന മൂലകമാണ് മീഡിയൻ മൂലകങ്ങളുടെ പകുതിയും വലുതിനേക്കാൾ വലുതാണ് ശരാശരി പകുതി ശരാശരിയേക്കാൾ ചെറുതാണ് പിവറ്റ് മീഡിയൻ ആണെന്ന ഈ ഭാഗ്യകരമായ സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ലയനം അടുക്കുന്ന ആവർത്തനത്തോടെ ഞങ്ങൾ അവസാനിക്കുന്നു ഇത് രണ്ട് ഭാഗങ്ങൾക്ക് t ന്റെ n 2 തവണ t n മുതൽ 2 വരെ സമയം എടുക്കുന്നുവെന്നും ഇത് വിഭജന ഘട്ടങ്ങളാണെന്നും പറയുന്നു അതിനാൽ ഇത് ആവർത്തനത്തിനു ശേഷമുള്ള ലയന ഘട്ടമല്ല ആവർത്തനത്തിന് മുമ്പുള്ള വിഭജനം അതിനാൽ ലയനം അടുക്കുന്നതിൽ ഞങ്ങൾ കണ്ടതുപോലെ ഈ ആവർത്തനം ഞങ്ങൾ അത് വിപുലീകരിക്കുകയാണെങ്കിൽ n ലോഗ് n ഓർഡർ എടുക്കും പക്ഷേ പിവറ്റ് ചില അർത്ഥത്തിൽ മികച്ച കേസാണ് ഏറ്റവും മോശം അവസ്ഥയാണ് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് പിവറ്റ് ഒരു അങ്ങേയറ്റത്തെ മൂല്യമാകുമ്പോൾ ഏറ്റവും ചെറിയ മൂല്യം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മൂല്യം അതിനാൽ ഇത് ഒരു ചെറിയ മൂല്യമാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത് പിവറ്റിനേക്കാൾ വലുതായിരിക്കും അതിനാൽ നിങ്ങൾക്ക് n മൈനസ് 1 മൂല്യങ്ങളുള്ള ഒരു മുകളിലെ ഘടക സെറ്റ് ഉണ്ടാകും കാരണം പിവറ്റ് ഒരു ചെറിയ മൂല്യമാണ് മാത്രമല്ല ഞങ്ങൾക്ക് ഈ ഭാഗത്ത് ഒന്നും ഉണ്ടാകില്ല സമമിതിയിൽ നിങ്ങളുടെ അറേയിലെ ഏറ്റവും വലിയ മൂല്യമാണ് പിവറ്റ് എങ്കിൽ താഴത്തെ ഘടക സെറ്റിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിരിക്കും അതിനാൽ ഇത് വീണ്ടും n മൈനസ് 1 കൂടാതെ പിവറ്റ് ഒരു അങ്ങേയറ്റത്തെ അറ്റത്തുള്ള ഒന്നായിരിക്കും മറുവശത്ത് ഒന്നുമില്ല അതിനാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വലിപ്പം n അടുക്കുന്നതിന് ഞാൻ ഒരു ചെറിയ സെഗ്മെന്റ് അടുക്കണം അത് n മൈനസ് 1 മാത്രമാണുള്ളത് അത് n മൈനസ് 1 നേക്കാൾ ചെറുതാണ് അതിനാൽ നമ്മുടെ ടിഎൻ ടിഎൻ മൈനസ് 1 പ്ലസ് എടുക്കുന്നു n n എന്നത് വിഭജനത്തിനായി എടുത്ത സമയമാണ് ഏറ്റവും മോശം അവസ്ഥയിൽ വീണ്ടും ടിഎൻ മൈനസ് 1 വീണ്ടും ഒരു പിവറ്റ് ഘടകമുണ്ടാകും അത് അങ്ങേയറ്റത്തെ മൂല്യമാണ് ഉദാഹരണത്തിന് 1 2 3 4 പോലുള്ള ഇതിനകം അടുക്കിയ അറേയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നതെന്ന് കരുതുക പിന്നെ എന്ത് സംഭവിക്കും ഞങ്ങൾ 1 പിവറ്റായി തിരഞ്ഞെടുക്കുന്നു തുടർന്ന് ഇത് സംഭവിക്കുന്നു ഇത് 2 3 4 എന്നിട്ട് ഞാൻ 2 ഒരു പിവറ്റായി തിരഞ്ഞെടുക്കും ഇത് ഞങ്ങളുടെ സോർട്ട് 1 ൽ 3 4 എന്നിങ്ങനെ അടുക്കുന്നു ചില അർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിനകം അടുക്കിയ അറേ ഉണ്ടെങ്കിൽ പിവറ്റ് എല്ലായ്പ്പോഴും ഒരു അങ്ങേയറ്റത്തെ മൂല്യങ്ങളാണ് അതിനാൽ അടുത്ത ഘട്ടം അറേയെ വളരെ മോശമായി വിഭജിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഇത് വികസിപ്പിക്കുന്നത് t n മൈനസ് 1 പ്ലസ് n ആണ് ആദ്യ തിരഞ്ഞെടുക്കൽ തരംതിരിക്കലിനും ഉൾപ്പെടുത്തൽ തരംതിരിക്കലിനുമായി ഞങ്ങൾക്ക് ലഭിച്ച സംഗ്രഹം ലഭിക്കുന്നു അതിനാൽ ഇത് ഓർഡർ n സ്ക്വയറായി മാറുന്നു അതിനാൽ ക്വിക്സോർട്ടിന്റെ ഏറ്റവും മോശം അവസ്ഥ യഥാർത്ഥത്തിൽ ഓർഡർ n സ്ക്വയറാണ് ഇത് ഏറ്റവും മോശമായതിന് തുല്യമാണ് സെലക്ഷൻ സോർട്ടിനും ഉൾപ്പെടുത്തൽ സോർട്ടിനുമുള്ള കേസ് അതിനാൽ കൂടുതൽ സങ്കീർണ്ണമായ അൽഗോരിതം ക്വിക്സോർട്ടിനെ ഞങ്ങൾ എന്തിന് വിഷമിപ്പിക്കുന്നു അതിനാൽ നമുക്ക് കാണിക്കാൻ കഴിയുന്ന ക്വിക്സോർട്ട് യഥാർത്ഥത്തിൽ ഈ മോശം രീതിയിൽ വളരെ പതിവായി പെരുമാറുന്നില്ലെന്ന് ഇത് മാറുന്നു അതിനാൽ ക്വിക്സോർട്ടിന്റെ കാര്യത്തിൽ നമുക്ക് ശരാശരി കേസ് സങ്കീർണ്ണത എന്ന് കണക്കാക്കാം ഇത് ഈ n ലോഗ് n ആണെന്ന് കാണിക്കാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ n ലോഗ് n ആണെന്ന് ഞങ്ങൾ കാണിക്കില്ല പക്ഷേ ക്വിക്സോർട്ടിന്റെ ശരാശരി കേസ് വിശകലനം കണക്കുകൂട്ടുന്നതിന്റെ അർത്ഥമെന്താണെന്ന് വിശദീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരാശരി കേസ് കണക്കുകൂട്ടാൻ വളരെ പ്രയാസമാണ് അതിനാൽ ഇത് ചെയ്യുന്നതിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ ശരാശരി കേസ് കണക്കുകൂട്ടാൻ പ്രയാസമുള്ളതിന്റെ ആദ്യ കാരണം കാരണം സാധ്യമായ എല്ലാ ഇൻപുട്ടുകളും വിവരിക്കുന്നതിനുള്ള ഒരു മാർഗം ഞങ്ങൾക്ക് ആവശ്യമാണ് ഇപ്പോൾ ഒരു സോർട്ടിംഗ് അൽഗോരിതം പോലും സാധ്യമായ എല്ലാ ഇൻപുട്ടുകളും അനന്തമായ ഇടമാണ് ഞാൻ ഒരു നിശ്ചിത വരിയുടെ അറേകൾ എടുക്കുന്നുവെന്ന് കരുതുക ഞാൻ നീളത്തിന്റെ 4 അറേകൾ എടുക്കുന്നുവെന്ന് കരുതുക അതിനാൽ എനിക്ക് 43 12 38 പോലെ തോന്നിക്കുന്ന ഒരു അറേ ഉണ്ടായിരിക്കാം അതിനാൽ ഇത് 4 ഘടകങ്ങളുള്ള ഒരു അറേയാണ് എനിക്ക് 72 21 63 95 എന്നിങ്ങനെയുള്ള 4 ഘടകങ്ങളുടെ മറ്റൊരു നിരയുണ്ട് പക്ഷേ ഈ രീതിയിൽ നമുക്ക് തുടരാനും നമുക്ക് ആവശ്യമുള്ള ഏത് ഘടകങ്ങളും ഇടാനും കഴിയും കൂടാതെ വലുപ്പത്തിന്റെ അനന്തമായ നിരവധി പിശകുകളും ഉണ്ട് എന്നാൽ ഇവയ്ക്കിടയിൽ ഒരു സാമ്യതയുണ്ട് ആദ്യത്തെ മൂലകം രണ്ടാമത്തെ മൂലകത്തേക്കാൾ വലുതാണെന്ന് പറയുന്നു വാസ്തവത്തിൽ രണ്ടാമത്തെ മൂലകം ഏറ്റവും ചെറിയ ഘടകമാണ് അങ്ങനെ അതിനാൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഘടകങ്ങളുണ്ടെന്നും അവ ക്രമത്തിൽ ചിന്തിക്കുന്നുവെന്നും പറയാം അപ്പോൾ ഏറ്റവും ചെറിയ ഘടകം ഇവിടെയുണ്ട് രണ്ടാമത്തെ ഏറ്റവും ചെറിയ ഘടകം ഇവിടെയുണ്ട് മൂന്നാമത്തെ ഏറ്റവും ചെറിയ ഘടകം ഇവിടെയുണ്ട് നാലാമത്തെ ചെറിയ ഘടകം ഇവിടെയുണ്ട് അതിനാൽ എനിക്ക് ഇതിനെ 3 1 2 4 എന്ന അറേ ആയി കണക്കാക്കാം കാരണം 4 ഘടകങ്ങളും 4 ഘടകങ്ങളും ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ ആപേക്ഷിക ഓർഡർ പ്രാധാന്യമുള്ളവ മാത്രം യഥാർത്ഥ മൂല്യങ്ങൾ പ്രധാനമല്ല അതിനാൽ വലുപ്പത്തിലുള്ള ഇൻപുട്ടുകളെക്കുറിച്ചും 1 മുതൽ n വരെയുള്ള പുനർ ക്രമപ്പെടുത്തലുകളായോ 1 മുതൽ n വരെയുള്ള ക്രമമാറ്റങ്ങളെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാനാകും ഇപ്പോൾ ഈ ക്രമമാറ്റങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് മുൻഗണനകളൊന്നുമില്ല അവയിലേതെങ്കിലും ഞങ്ങളുടെ ഇൻപുട്ടായി വരും അതിനാൽ അത്തരം വ്യതിയാനങ്ങൾ n ഫാക്റ്റോറിയൽ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവ ഓരോന്നും തുല്യമായി സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ അവയിൽ ഓരോന്നിനും പ്രോബബിലിറ്റി 1 ബൈ n ഫാക്റ്റോറിയൽ സംഭവിക്കുന്നു ഇപ്പോൾ n വലുപ്പത്തിന്റെ ഈ n ഫാക്റ്റോറിയൽ ഇൻപുട്ടുകൾ എല്ലാം നോക്കുകയും ഞങ്ങളുടെ അൽഗോരിതം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ യഥാർത്ഥ കണക്കുകൂട്ടൽ നടത്തുകയില്ല എന്നാൽ നിങ്ങൾ ശരാശരി കാണുകയാണെങ്കിൽ എല്ലാ n ഫാക്റ്റോറിയൽ ഇൻപുട്ടുകൾക്കും എടുക്കുന്ന യഥാർത്ഥ സമയം നിങ്ങൾ കാണുന്നു n ഫാക്റ്റോറിയൽ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുകയും വിഭജിക്കുകയും ചെയ്യുന്നു ഇത് ഒഴിവാക്കപ്പെട്ട ഓട്ടം കണക്കാക്കുന്നത് എന്നറിയപ്പെടുന്ന പ്രോബബിലിറ്റിയാണ് സമയം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഓർഡർ n ലോഗ് എൻ ആണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ ഇത് കാണിച്ചിട്ടില്ല ഇത് കാണിക്കുന്നതിന് ആവശ്യമായ ഗണിതശാസ്ത്രം എന്താണെന്ന് ഞങ്ങൾ വിശദീകരിക്കുന്നു പക്ഷേ ക്വിക്സോർട്ടിൽ നിങ്ങൾക്ക് സാധ്യമായ എല്ലാ റാൻഡം ഇൻപുട്ടുകൾക്കും തുല്യമായ ഇൻപുട്ടുകൾക്കിടയിൽ പ്രതീക്ഷിക്കുന്ന പ്രവർത്തന സമയം തെളിയിക്കാനാകും ഇത് യഥാർത്ഥത്തിൽ എൻ ലോഗ് എൻ ഓർഡർ ചെയ്യും അതിനാൽ ക്വിക്സോർട്ടിന് ഒരു ഒ n സ്ക്വയേർഡ് മോശം അവസ്ഥയുണ്ടെങ്കിലും ശരാശരി അത് ലയനം അടുക്കുന്നതുപോലെ പ്രവർത്തിക്കുന്നു കൂടാതെ ലയനം അടുക്കുന്ന ചില കുഴികൾ ഇല്ലാതെ പ്രത്യേകിച്ചും ഒരു ലയന ശ്രേണി സൃഷ്ടിക്കുന്നതിന് അധിക സ്ഥലം ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശരാശരി കേസ് പെരുമാറ്റം വളരെ ലളിതമായി ഉപയോഗപ്പെടുത്താം എന്തുകൊണ്ടാണ് ഈ മോശം അവസ്ഥ സംഭവിക്കുന്നത് ഏറ്റവും മോശം സംഭവം സംഭവിക്കുന്നു കാരണം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന പിവറ്റ് ഒരു മോശം പിവറ്റ് ആകാം കാരണം നിങ്ങൾ ആദ്യത്തെ മൂലകം നിങ്ങളുടെ പിവറ്റായി ഇടുകയാണെങ്കിൽ അടുക്കിയ അറേ ഒരു മോശം കേസായി മാറുന്നു കാരണം ഓരോ തവണയും പിവറ്റ് അങ്ങേയറ്റത്തെ മൂലകമാണ് മറുവശത്ത് നിങ്ങൾക്ക് അവസാന ഘടകം എടുക്കാം നിങ്ങൾക്ക് സമാന പ്രശ്നമുണ്ടാകും നിങ്ങൾ വീണ്ടും മിഡ്പോയിന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ മൂലകത്തിൽ നിന്ന് ആരംഭിക്കുന്ന അറേയുടെ മധ്യ ബിന്ദു നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾക്ക് പിന്നിലേക്ക് പ്രവർത്തിക്കാനും എല്ലായ്പ്പോഴും നിർമ്മിക്കാനും കഴിയും ഓർഡർ n സ്ക്വയർ എടുക്കുന്ന ഏറ്റവും മോശം കേസ് അതിനാൽ ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും നിശ്ചിത തന്ത്രത്തിന് ഞാൻ എല്ലായ്പ്പോഴും പിവറ്റിന്റെ സ്ഥാനം ഒരു നിശ്ചിത രീതിയിൽ കണക്കുകൂട്ടാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞാൽ പിന്നിലേക്ക് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിലവിലെ സ്ഥാനം ഉറപ്പാക്കാൻ കഴിയും പ്രശ്നം നിങ്ങൾക്ക് ഒരു മോശം കേസ് ഉണ്ട് അത് അങ്ങേയറ്റത്തെ ഇൻപുട്ടാണ് ഒപ്പം ആ തന്ത്രത്തിന് O n സ്ക്വയർ എടുക്കുന്ന എന്തെങ്കിലും പുനർനിർമ്മിക്കുക അതിനാൽ തന്ത്രം പരിഹരിക്കാതിരിക്കുക എന്നതാണ് പരിഹാരം ഓരോ തവണയും ഞാൻ ഒരു ആവർത്തന ഉപ പ്രശ്നത്തിലേക്ക് ക്വിക്സോർട്ട് പ്രയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് 0 മുതൽ n മൈനസ് 1 വരെ ചില സ്ഥാനങ്ങളുണ്ട് അത് എനിക്ക് ഒരു പിവറ്റായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പക്ഷേ അത് 0 അല്ലെങ്കിൽ n മൈനസ് 1 അല്ലെങ്കിൽ 0 നും n മൈനസ് 1 നും ഇടയിലുള്ള പാതയാണെന്ന് നിങ്ങളോട് പറയുന്നതിനുപകരം ഈ മൂല്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തുല്യ പ്രോബബിലിറ്റിയോടെ ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ പറയും അതിനാൽ ഇതിനെ ചിന്തിക്കുക ഞാൻ 0 നും n മൈനസ് 1 നും ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫിക്കായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കടന്നുപോകുകയോ എറിയുകയോ ചെയ്യുന്നു അതിനാൽ ഒരു മരിക്കുക സാധാരണയായി ആറ് മുഖങ്ങൾ പറയുന്നു അതിനാൽ നിങ്ങൾ ഒരു നിരക്ക് ഈടാക്കിയാൽ 1 നും 6 നും ഇടയിലുള്ള ഏത് സംഖ്യയും നിങ്ങൾക്ക് തുല്യമായിരിക്കും അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വശത്ത് മരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് സങ്കീർണ്ണമായ ഒരു തരം ഒബ്ജക്റ്റ് ഉണ്ട് ഞങ്ങൾ അത് എറിയുകയും ഏത് നമ്പർ വന്നാലും ഞങ്ങൾ അത് ഒരു പിവറ്റ് ആയി എടുക്കുകയും ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ ഈ അൽഗോരിത്തിന്റെ സ്വഭാവം പരിഹരിച്ചിട്ടില്ല ഇത് എങ്ങനെ മരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് റാൻഡമൈസ്ഡ് അൽഗോരിതം എന്ന് വിളിക്കുന്ന വ്യത്യസ്ത തരം അൽഗോരിതം ആണ് അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ലളിതമായ റാൻഡമൈസേഷൻ സ്റ്റെപ്പ് ഉപയോഗിച്ച് ക്രമരഹിതമായ വേഗതയിൽ ക്വിക്ക്സോർട്ട് നടപ്പിലാക്കാൻ കഴിയും അതായത് ക്വിക്സോർട്ട് എന്ന് വിളിക്കുന്ന ഓരോന്നിലും ക്രമരഹിതമായി പിവറ്റ് തിരഞ്ഞെടുക്കുക പിവറ്റിനായി ഞാൻ ചെയ്യുന്ന എല്ലാ ക്രമരഹിതമായ ചോയിസുകളിലുടനീളം പ്രതീക്ഷിക്കുന്ന പ്രവർത്തന സമയം ഓർഡർ എൻ ലോഗ് എൻ ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും സമാനമായ ഒരു കണക്കുകൂട്ടൽ നടത്താൻ കഴിയുമെന്ന് ഇത് മാറുന്നു അതിനാൽ ഇത് വളരെ ലളിതമാണ് ഇത് ശരാശരി കേസുകളുടെ ഒരു ഇരട്ട ഫലമാണ് n ലോഗ് n നല്ല പ്രോബബിലിറ്റിയോടെ ഈ n ലോഗ് n നേടുന്നതിന് വളരെ ലളിതമായ ക്രമരഹിതമായ തന്ത്രം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം ലയനം തരംതിരിക്കലിനെക്കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ച മറ്റൊരു വശം ഇത് അൽപ്പം പരിമിതപ്പെടുത്തുന്നു അത് അന്തർലീനമായി ആവർത്തനമാണ് എന്നതാണ് ഇപ്പോൾ ക്വിക്സോർട്ടിനുള്ള ഞങ്ങളുടെ പരിഹാരം സ്ഥലത്തിന്റെ ഈ തനിപ്പകർപ്പ് ഒഴിവാക്കുന്നു പക്ഷേ ഇത് ആവർത്തനമാണ് ഇപ്പോൾ ക്വിക്സോർട്ടിൽ ഇത് മാറുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ആവർത്തന അൽഗോരിതം ആവർത്തനമാക്കാൻ കഴിയും അതിനാൽ ആവർത്തന കോളുകൾ ഡിജോയിറ്റ് സെഗ്മെന്റുകളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് കാര്യം അതിനാൽ ആവർത്തന കോളിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് മുഴുവൻ സെഗ്മെന്റല്ല മറിച്ച് നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പ്രവർത്തിക്കേണ്ടത് ഫലങ്ങൾ സംയോജിപ്പിക്കേണ്ടതില്ല അതിനാൽ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു സ്റ്റാക്ക് ഉപയോഗിക്കാമെന്ന് മാറുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം സ്റ്റാക്ക് നിലനിർത്താൻ കഴിയും കൂടാതെ നിങ്ങൾ ഒരു ആവർത്തന കോൾ വിളിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഏത് വിഭാഗത്തെ തരംതിരിക്കേണ്ടതിന്റെ ഇടത് വലത് അവസാന സ്ഥാനത്ത് സ്റ്റാക്കിൽ സംഭരിക്കുക ഈ രീതിയിൽ നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എഴുതിയ ആവർത്തന അൽഗോരിതം എടുത്ത് ഒരു ആവർത്തന അൽഗോരിതം ആക്കി മാറ്റാൻ കഴിയും ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പൊതുവായ പട്ടികയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ഭാഷയെ ആശ്രയിച്ച് ആവർത്തനത്തിനെതിരെയും ആവർത്തനത്തിനെതിരെയും നിങ്ങൾക്ക് ഒരു ട്രേഡ് ഓഫുണ്ട് കാരണം നിങ്ങൾ ഒരു ആവർത്തന കോൾ ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പൊതുവായി ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കമ്പ്യൂട്ടിംഗ് ചെയ്യുന്ന നിലവിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കണം അതിനാൽ നിങ്ങൾ താൽക്കാലികമായി നിർത്തി സ്വീകരിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഒരു ആവർത്തന കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പക്കലുള്ളതെല്ലാം മാറ്റിവയ്ക്കണം തുടർന്ന് നിങ്ങൾ ഒരു പുതിയ സെറ്റ് ലോക്കൽ വേരിയബിളുകൾ എടുക്കണം അതിനാൽ പ്രോഗ്രാമിന്റെ മെമ്മറിയിൽ നിങ്ങൾ കുറച്ച് പുതിയ ഡാറ്റ ലോഡ് ചെയ്യണം തുടർന്ന് നിങ്ങൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം അവസാനിപ്പിക്കണം നിങ്ങൾ അത് വലിച്ചെറിയുകയും സന്ദർഭം പുന restore സ്ഥാപിക്കുകയും വേണം നിങ്ങൾ പുനരാരംഭിക്കണം അതിനാൽ ഇതിന് കുറച്ച് സമയമെടുക്കും ഇതിന് കുറച്ച് വിഭവങ്ങൾ ആവശ്യമാണ് അതിനാൽ സാധാരണയായി ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിനുള്ള ചെലവ് ഒരു സങ്കീർണ്ണമായ പ്രവർത്തനമായി കണക്കാക്കിയേക്കാമെങ്കിലും ഒരു അടിസ്ഥാന പ്രവർത്തനമെന്ന നിലയിൽ സങ്കലനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരിക്കും ഗണിത പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ കൂടുതലാണ് അതിനാൽ ഓരോ തവണയും നിങ്ങൾ ഒരു ആവർത്തന കോൾ വിളിക്കുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി പോയി സ്റ്റാക്കിൽ എന്തെങ്കിലും മാറ്റിസ്ഥാപിക്കുന്നത് ചില പുതിയ ഫ്രെയിമാണ് തുടർന്ന് അത് തിരികെ വയ്ക്കുന്നു ഇതിന് സമയമെടുക്കും അതിനാൽ പൊതുവേ ചിലപ്പോൾ കാര്യക്ഷമത ആവശ്യങ്ങൾക്കായി ആവർത്തനത്തെ ആവർത്തനത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് നല്ലതാണ് മറുവശത്ത് ഈ പ്രക്രിയയ്ക്ക് അൽഗോരിതം കൂടുതൽ അവ്യക്തമാക്കുകയും നിരവധി പ്രോഗ്രാമിംഗ് ഭാഷകൾ യഥാർത്ഥത്തിൽ ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യുന്നു ഇത് സ്വപ്രേരിതമായി ചെയ്യാൻ ശ്രമിക്കും അതിനാൽ ആവർത്തനവും ആവർത്തനവും തമ്മിലുള്ള ഈ വ്യത്യാസം എല്ലായ്പ്പോഴും വളരെയധികം സഹായിക്കില്ല പക്ഷേ ചില അൽഗോരിതം രണ്ട് രീതിയിലും ചെയ്യാമെന്നും ചില അൽഗോരിതം ഇവിടെ ഒന്ന് ചെയ്യാൻ പ്രയാസമാണെന്നും അറിയുന്നത് ഉപയോഗപ്രദമാണ് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ക്വിക്ക്സോർട്ട് വിടുന്നതിനുമുമ്പ് ഞങ്ങളുടെ അവസാന പരാമർശം അതിനാൽ പ്രായോഗികമായി ക്വിക്സോർട്ട് വളരെ വേഗതയുള്ളതാണ് കാരണം ഞങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും മോശം അവസ്ഥ വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇക്കാരണത്താൽ സാധാരണഗതിയിൽ ക്വിക്സോർട്ട് ഒരു സ്ഥിരസ്ഥിതി അൽഗോരിതം ആണ് നിങ്ങൾക്ക് ഒരു ബിൽറ്റ് ഇൻ സോർട്ട് ഫംഗ്ഷൻ ഉള്ളപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു സ്പ്രെഡ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു നിര അടുക്കാൻ നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ സാധാരണയായി നിങ്ങളുടെ നിരയിൽ ഈ നിര ക്രമീകരിക്കാൻ ക്വിക്സോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ സോർട്ട് ഫംഗ്ഷനിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് സി സി പ്ലസ് പ്ലസ് ജാവ എന്നിവയെല്ലാം നിങ്ങളെ അടുക്കാൻ വിളിക്കാൻ അനുവദിക്കുന്നു പൈത്തൺ പോലും നിങ്ങളെ അടുക്കാൻ വിളിക്കാൻ അനുവദിക്കുന്നു മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ഭാഷയിലും പ്രോഗ്രാമർക്ക് ലളിതമായ ഒരു കോൾ വഴി ലഭ്യമായ ഈ തരം ഫംഗ്ഷൻ സാധാരണയായി ക്വിക്ക്സോർട്ടിന്റെ നടപ്പാക്കലാണ് തീർച്ചയായും ഈ നടപ്പാക്കൽ വേഗത്തിലാക്കാൻ റാൻഡമൈസേഷൻ മറ്റ് കാര്യങ്ങൾ എന്നിവ പോലുള്ള വിവിധ ഒപ്റ്റിമൈസേഷനുകൾ ഉപയോഗിച്ചേക്കാം എന്നാൽ അടിവരയിട്ട അൽഗോരിതത്തിൽ അതിന്റെ ഹൃദയം സാധാരണയായി ക്വിക്സോർട്ട് ആണ്